ഹലോ എല്ലാവരേയും സ്വാഗതം ചെയ്യുന്നു ഐഐടി കാൺപൂരിൽ നിന്ന് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രവി ചന്ദ്രയാണ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് നമ്മൾ ആറാം ആഴ്ചയിലാണ് ഈ ആഴ്ച ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ ആവശ്യകതയോടെ തുടർന്ന് ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മുന്നോട്ട് പോയി തടസ്സങ്ങൾക്കിടയിൽ അയയ്ക്കുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും വ്യക്തിത്വത്തിൽ നിന്ന് പുറത്തുവരുന്നവയിൽ ഞങ്ങൾ തുടക്കത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഞങ്ങൾ അത് ആഴത്തിൽ വിശകലനം ചെയ്യുകയും ഈ തടസ്സങ്ങളെ നേരിടുന്നതിനുള്ള ചില തന്ത്രങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് നിങ്ങൾക്ക് എങ്ങനെ വ്യക്തിപരമായ തടസ്സങ്ങളെ നേരിടാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അതിനുശേഷം ഞാൻ തെറ്റായ ആശയവിനിമയം നോക്കി പ്രത്യേകിച്ച് സംഘടനാ സജ്ജീകരണത്തിൽ വരുന്ന തടസ്സങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ആഴ്ചയുടെ സമാപനത്തിലേക്ക് ഞാൻ ശരീരഭാഷയായ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ചിലർ ഈ പ്രഭാഷണം കേൾക്കാൻ സജീവമായി കാത്തിരിക്കുകയാണ് ഇത് എപ്പോൾ വരുമെന്ന് പലരും ഇതിനകം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രഭാഷണത്തിലും അടുത്തതിലും ഈ ആശയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുപകരം ഞാൻ അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഒരു പ്രീ തിങ്കിംഗ് അസസ്മെന്റ് രീതി ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഈ മൊഡ്യൂളിൽ അതായത് അഞ്ചാമത്തെ മൊഡ്യൂൾ പ്രഭാഷണ നമ്പർ 35 പ്രഭാഷണ നമ്പർ 36 എന്നിവയിൽ അടുത്ത ആഴ്ച ആഴ്ച 6 ൽ അടുത്ത ആഴ്ച ആറാം ആഴ്ചയിൽ വരുന്ന ശരീരഭാഷയുടെ ആശയങ്ങൾ ഞാൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനം ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് പതിവുപോലെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഹ്രസ്വമായ പുനരവലോകനം നടത്താം തെറ്റായ ആശയവിനിമയം തെറ്റായ ആശയവിനിമയം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മുൻ പ്രഭാഷണം സാധാരണയായി തെറ്റായ ധാരണ കാരണം ഉണ്ടാകുന്നു ഇവ പ്രവർത്തന ഇടപാട് പരാജയത്തിന്റെ ഉദാഹരണങ്ങളാണ് താഴേക്ക് തിരശ്ചീനമായി മുകളിലേക്ക് തുടങ്ങിയ ഔപചാരിക ചാനലുകളിലൂടെ ഒഴുകുന്ന ആശയവിനിമയം നമ്മൾ ചർച്ച ചെയ്യുകയും പിന്നീട് കൂടുതലും താഴേക്കും മുകളിലേക്കും തെറ്റായ ആശയവിനിമയത്തിനുള്ള സാധ്യതകളുണ്ട് ഈ ചാനലുകൾക്കുള്ളിൽ ഔപചാരിക ചാനലുകളിലൂടെ ഒഴുകുന്ന ആശയവിനിമയ രൂപങ്ങൾ റിട്ടേൺ മോഡിലും ഓറൽ മോഡിലും ഇലക്ട്രോണിക് മോഡിലുമാണ് ഇലക്ട്രോണിക് മോഡിൽ ഞങ്ങൾ മുമ്പ് കൂടുതൽ സമയം ചെലവഴിച്ചു ഇതിനുള്ളിൽ ഭരണപരമായ ശ്രേണി നീണ്ട ആശയവിനിമയ ലൈനുകൾ വളരെയധികം ട്രാൻസ്ഫർ സ്റ്റേഷനുകൾ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള വിശ്വാസക്കുറവ് എന്നിവയിൽ നിന്ന് ഉണ്ടാകുന്ന ഓർഗനൈസേഷനുകളിലെ വിവര പ്രവാഹത്തിനുള്ള ചില തടസ്സങ്ങൾ ഞങ്ങൾ വീണ്ടും പരിശോധിച്ചു താഴേക്കുള്ള ആശയവിനിമയത്തിലെ ഒരു സന്ദേശ വളച്ചൊടിക്കലിനും ഉൽപ്പന്ന വികസനത്തിലെ രണ്ട് തെറ്റായ ആശയവിനിമയത്തിനും ഞങ്ങൾ രണ്ട് രസകരമായ ചിത്രീകരണ ഉദാഹരണങ്ങൾ നോക്കി ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു പ്രീ തിങ്കിംഗ് അസസ്മെന്റ് ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ വീണ്ടും സോഫ്റ്റ് സ്കിൽസിനെക്കുറിച്ചും ശരീരഭാഷയെക്കുറിച്ചും പൊതുവായി ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് തങ്ങൾക്കറിയാമെന്നും അവർ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്നും എല്ലാവരും കരുതുന്നു എന്നാൽ നിങ്ങളുടെ ധാരണകളിലെയും തെറ്റിദ്ധാരണകളിലെയും ചില പിശകുകൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ വ്യക്തമാക്കുന്നതിലൂടെയും തിരുത്താൻ കഴിയും ശരീരഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള അറിവ് പരിശോധിക്കുകയും നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം ഞാനെങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു ലളിതമായ ക്വിസ് രീതി ഉപയോഗിക്കാൻ പോകുന്നു അസൈൻമെന്റുകളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തരം നൽകുന്നതുപോലുള്ള ശരി അല്ലെങ്കിൽ തെറ്റ് രീതി അഞ്ച് ചോദ്യങ്ങൾ സാധാരണയായി ശരി അല്ലെങ്കിൽ തെറ്റ് രീതിയിലാണ് ഇപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകുന്നു തുടർന്ന് ചില പരസ്പരബന്ധിതമായ ചിത്രങ്ങളുണ്ട് നിങ്ങൾക്ക് ചിത്രവും നോക്കാം ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് താൽക്കാലികമായി നിർത്താം തുടർന്ന് നിങ്ങളുടെ മേശയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു കടലാസോ പേനയോ പെൻസിലോ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കോ പോയി വീണ്ടും വീഡിയോയ്ക്ക് മുന്നിൽ ഇരുന്ന് പുനരാരംഭിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നൽകുമ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ശരി അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക നിങ്ങൾ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് എഴുതി നിങ്ങളുടെ ഉത്തരങ്ങൾ സ്വാഭാവികമായിരിക്കട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ പോകുന്നു തുടർന്ന് ഞാൻ ആവർത്തിക്കുമ്പോൾ അത് ഉത്തരങ്ങൾ നൽകുന്നു തുടർന്ന് നമ്മൾ അടുത്തതിലേക്ക് പോകും അത് താൽക്കാലികമായി നിർത്തുകയും ദീർഘനേരം ചിന്തിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക ഞാൻ ക്വിസ് നടത്താൻ പോകുന്ന വേഗതയ്ക്ക് അനുസൃതമായി പോകുക അതിനാൽ ശരീരഭാഷയെക്കുറിച്ചും പൊതുവായി നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം ആശയങ്ങളോട് എത്രത്തോളം സ്വമേധയാ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അത് എന്നെ മനസ്സിലാക്കും നിങ്ങൾ തയ്യാറാണോ നമുക്ക് ആരംഭിക്കാമോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആരംഭിക്കാം അത് വെറും സത്യമോ തെറ്റോ ആയ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഒരു കടലാസോ നോട്ട്ബുക്കോ എടുത്തിട്ടുണ്ടെന്നും പേനയോ പെൻസിലോ കൊണ്ട് നിങ്ങൾ തയ്യാറാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ ശരി അല്ലെങ്കിൽ തെറ്റ് പറയണം പുരുഷന്മാരേക്കാൾ സ്ത്രീകൾക്ക് ശരീരഭാഷയോട് സ്വാഭാവിക സംവേദനക്ഷമതയുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക ശരിയോ തെറ്റോ എന്ന് പറയുക ഞാൻ ആവർത്തിക്കുന്നു ഞാൻ ആവർത്തിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം ഞാൻ അടുത്തതിലേക്ക് പോകും നിങ്ങൾ നിങ്ങളുടെ ഉത്തരം പൂർത്തിയാക്കേണ്ടതായിരുന്നു പുരുഷന്മാരേക്കാൾ സ്ത്രീകൾക്ക് ശരീരഭാഷയോട് സ്വാഭാവിക സംവേദനക്ഷമതയുണ്ട് നിങ്ങൾ ശരിയോ തെറ്റോ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അടുത്തതിലേക്ക് പോകട്ടെ ചോദ്യം നമ്പർ 2 സത്യസന്ധനല്ലാത്ത ഒരാൾ കണ്ണുമായി സമ്പർക്കം ഒഴിവാക്കുന്നു അതിനാൽ കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നത് കണ്ണിൽ നോക്കൂ ഉത്തരത്തെക്കുറിച്ച് ചിന്തിക്കുക ഞാൻ ആവർത്തിച്ചതിന് ശേഷം എഴുതുക സത്യസന്ധതയില്ലാത്ത ഒരു വ്യക്തി കണ്ണുമായി സമ്പർക്കം ഒഴിവാക്കുന്നു നിങ്ങൾ ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അടുത്തതിലേക്ക് പോകുന്നു മൂന്നാമത്തെ ചോദ്യം ഒരു വ്യക്തി കൂടുതൽ സ്ഥലം കൈവശപ്പെടുത്തുമ്പോൾ അവൻ കൂടുതൽ അധികാരം ആസ്വദിക്കുന്നു ഒരു വ്യക്തി കൂടുതൽ ഇടം കൈവശപ്പെടുത്തുമ്പോൾ അവൻ കൂടുതൽ അധികാരം ആസ്വദിക്കുന്നു ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുക ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ ചോദ്യം നമ്പർ 4 നിങ്ങൾ ഇടപഴകുന്ന മറ്റേ വ്യക്തിയേക്കാൾ താഴെ ഇരിക്കുന്നത് ആധിപത്യത്തെയോ അധികാരത്തെയോ സൂചിപ്പിക്കുന്നു അതിനാൽ രണ്ട് ആളുകൾ അവിടെയുണ്ട് നിങ്ങൾ ഇടപഴകുന്ന മറ്റേ വ്യക്തിയേക്കാൾ താഴെയായി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾ താഴെയായി ഇരിക്കുകയാണെങ്കിൽ അത് ആധിപത്യത്തെയോ അധികാരത്തെയോ സൂചിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം നിങ്ങൾ ശരി അല്ലെങ്കിൽ തെറ്റ് പറയണം നിങ്ങൾ ഇതിനും ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അടുത്തതിലേക്ക് പോകുന്നു അഞ്ചാമത്തെ ചോദ്യം കാലുകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് ഒരു മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ ഒരാൾ ആക്രമണാത്മകതയുടെ സ്വഭാവം കാണിക്കുന്നു പ്രത്യേകിച്ച് ഒരാൾക്ക് മുമ്പ് ഞാൻ ആവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഉത്തരം നൽകുക കാലുകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് ഒരു മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും മുന്നിൽ ശരിയോ തെറ്റോ എന്ന് പറയുമ്പോൾ ഒരാൾ ആക്രമണാത്മകതയുടെ സ്വഭാവസവിശേഷതകൾ കാണിക്കുന്നു ഞാൻ അടുത്തതിലേക്ക് പോകുന്നു ഒരു ലളിതമായ പോലെ തോന്നുന്നു ആറാമത്തെ ചോദ്യം തല കാലുകൾ അല്ലെങ്കിൽ കണങ്കാലുകൾ കടക്കുന്നത് ഒരു പ്രതിരോധ ആംഗ്യമാണ് കൈകൾ കാലുകൾ അല്ലെങ്കിൽ കണങ്കാലുകൾ കടക്കുന്നത് ഒരു പ്രതിരോധ ആംഗ്യമാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ ചോദ്യം നമ്പർ ഏഴിലേക്ക് വിരലുകൾ കൊണ്ട് സ്റ്റെപ്പിൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് വിരലുകളും കൈകളും ഉപയോഗിച്ച് സ്റ്റെപ്പിൾ ചെയ്യുന്നത് ആത്മവിശ്വാസം കാണിക്കുന്നു വിരലുകളും കൈകളും ഉപയോഗിച്ച് സ്റ്റെപ്പിൾ ചെയ്യുന്നത് ആത്മവിശ്വാസം കാണിക്കുന്നു ശരിയോ തെറ്റോ എന്ന് പറയുക നമുക്ക് അടുത്തതിലേക്ക് പോകാം എട്ടാമത്തേത് സിഗരറ്റ് വലിക്കുന്നത് പ്രത്യേകിച്ച് ഒരു അഭിമുഖത്തിനോ അത്തരം പ്രവർത്തനങ്ങൾക്കോ മുമ്പ് ഉത്കണ്ഠയുടെയോ പരിഭ്രാന്തിയുടെയോ അടയാളമായി കണക്കാക്കപ്പെടുന്നു ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു അഭിമുഖത്തിനോ അത്തരം പ്രവർത്തനങ്ങൾക്കോ മുമ്പ് സിഗരറ്റ് വലിക്കുക അതിനാൽ അഭിമുഖം അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും പിരിമുറുക്കമുള്ള പ്രവർത്തനം നിങ്ങൾ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കണം നിങ്ങൾ ഒരു അവതരണം നൽകണം നിങ്ങളെ ആളുകൾ വിലയിരുത്തുന്നു അതിനാൽ പ്രത്യേകിച്ച് അത്തരം പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുന്നത് ഉത്കണ്ഠയുടെയോ പരിഭ്രാന്തിയുടെയോ അടയാളമായി കണക്കാക്കുകയാണെങ്കിൽ ശരിയോ തെറ്റോ എന്ന് പറയുക ഞാൻ അടുത്തതിലേക്ക് പോകുന്നു ഒൻപതാമത്തേത് നിങ്ങളുടെ കൈപ്പത്തിയിൽ തല വയ്ക്കുന്നത് വിഷയത്തിലുള്ള താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കൈപ്പത്തിയിൽ തല വയ്ക്കുന്നത് വിഷയത്തിലുള്ള താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു ശരിയോ തെറ്റോ എന്ന് പറയുക ഞാൻ അടുത്തതിലേക്ക് പോകുന്നു നിങ്ങളുടെ വിരലുകൾ മുകളിലേക്ക് കാണിക്കുന്നത് വിജയകരമായി പൂർത്തിയാക്കിയ ജോലിയെയോ വിജയത്തെയോ സൂചിപ്പിക്കുന്നു ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ വിരലുകൾ മുകളിലേക്ക് കാണിക്കുന്നത് വിജയകരമായി പൂർത്തിയാക്കിയ ജോലിയെയോ വിജയത്തെയോ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഇത് ശരിയായി ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തത് കുഞ്ഞുങ്ങൾ ചോദ്യം നമ്പർ 11 കുഞ്ഞുങ്ങൾ മുതിർന്നവരേക്കാൾ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് കുട്ടികൾ മുതിർന്നവരേക്കാൾ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് ശരിയോ തെറ്റോ എന്ന് പറയുക നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് ചോദ്യം നമ്പർ 12 ആണ് പ്രത്യേകിച്ച് നോൺ വെർബൽ ആശയവിനിമയത്തിൽ വാക്കാലുള്ള ആശയവിനിമയത്തേക്കാൾ വാക്കേതര ആശയവിനിമയം തീവ്രവും ഫലപ്രദവുമല്ല ചോദ്യം ശ്രദ്ധാപൂർവ്വം കേൾക്കുക വാക്കാലുള്ള ആശയവിനിമയത്തേക്കാൾ വാക്കേതര ആശയവിനിമയം തീവ്രവും ഫലപ്രദവുമല്ല ഞാൻ അടുത്തതിലേക്ക് പോകണോ ചോദ്യം നമ്പർ 13 നമ്മൾ ആരോടെങ്കിലും വാക്കാലുള്ള സംസാരം നിർത്തുമ്പോൾ നമ്മൾ മുഴുവൻ ആശയവിനിമയവും നിർത്തുന്നു അതിനാൽ ഈ ചോദ്യം വാക്കാലുള്ള ആശയവിനിമയത്തിന്റെ ഒരു പ്രധാന വശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതായത് നമ്മൾ ആരോടെങ്കിലും വാക്കാലുള്ള സംസാരം നിർത്തുമ്പോൾ നമ്മൾ മുഴുവൻ ആശയവിനിമയവും നിർത്തുന്നു ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക ഞാൻ അടുത്തതിലേക്ക് നീങ്ങുന്നു ഇത് സ്വമേധയാ ഉള്ള ശരീരഭാഷയെക്കുറിച്ചാണ് അത് നിങ്ങളുടെ അറിവില്ലാതെ പുറത്തുവരുന്ന നിങ്ങളുടെ ചില പെരുമാറ്റമാണ് നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചില ചലനങ്ങൾ നിങ്ങളുടെ ചില ഭാവങ്ങൾ ശരീരഭാഷ തന്നെ സ്വമേധയാ ഉള്ള ശരീരഭാഷ ഒരു വ്യക്തിയുടെ ആന്തരിക ചിന്തകളോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു ഞാൻ ചോദ്യം നമ്പർ 14 ആവർത്തിക്കുന്നു സ്വമേധയാ ഉള്ള ശരീരഭാഷ ഒരു വ്യക്തിയുടെ ആന്തരിക ചിന്തയോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു ശരിയോ തെറ്റോ എന്ന് പറയുക നമുക്ക് അടുത്തതിലേക്ക് പോകാം സമയത്തെക്കുറിച്ചുള്ള ധാരണ സമയത്തെ നാം മനസ്സിലാക്കുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള രസകരമായ ഒന്നാണിത് ചോദ്യം നമ്പർ 15 ആളുകൾ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ നിലനിർത്തുകയും സമയത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾക്കനുസരിച്ച് സമയപരിധി പാലിക്കുകയും ചെയ്യുന്നു ചോദ്യം നമ്പർ 15 ആളുകൾ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ നിലനിർത്തുകയും സമയത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾക്കനുസരിച്ച് സമയപരിധി പാലിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇത് ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് അവസാനത്തേതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങും ഓരോ ശരിയായ ഉത്തരത്തിനും ഒരു മാർക്ക് മാത്രം നൽകുക അതിനാൽ ഓരോ തെറ്റായ ഉത്തരവും 0 ആണ് നമുക്ക് വിലയിരുത്തൽ ആരംഭിക്കാം ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തേത് പുരുഷന്മാരേക്കാൾ സ്ത്രീകൾക്ക് ശരീരഭാഷയോട് സ്വാഭാവിക സംവേദനക്ഷമതയുണ്ട് ഉത്തരം ശരിയാണ് അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ ശരീരഭാഷയോട് സ്വാഭാവികമായ സംവേദനക്ഷമതയുണ്ട് ആരെങ്കിലും നല്ലവരാണെന്നും ആരെങ്കിലും മോശമാണെന്നും അവർക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയും അത് അപകടകരമാണെന്നും പുരുഷന്മാരേക്കാൾ അപകടകരമാണെന്നും ഒരു പരിതസ്ഥിതിയിൽ അവർക്ക് ഉടൻ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നമുക്ക് ചുറ്റുമുള്ള സൂചനകളുടെ കാര്യത്തിൽ അവ കൂടുതൽ ബോധവാന്മാരാണ് തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പെട്ടെന്നുള്ള വിവര വ്യാഖ്യാനം നടത്താൻ കഴിയും അതിനാൽ പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശരീരഭാഷയോടുള്ള സ്വാഭാവിക സംവേദനക്ഷമത അവർക്കുണ്ട് ചോദ്യം നമ്പർ 2 സത്യസന്ധനല്ലാത്ത ഒരാൾ കണ്ണുമായി സമ്പർക്കം ഒഴിവാക്കുന്നു അത് ശരിയാണ് സത്യസന്ധരായ എല്ലാ ആളുകളും കണ്ണുതുറന്ന് നോക്കാൻ ശ്രമിക്കുന്നു വാസ്തവത്തിൽ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടാത്തപ്പോഴോ പരസ്പരം സത്യസന്ധത പുലർത്താത്തപ്പോഴോ അവരെപ്പോലുള്ള പദപ്രയോഗങ്ങൾ നമുക്കുണ്ട് അതിനാൽ അവർ കണ്ണുകൾ തമ്മിൽ കാണുന്നില്ല അതിനാൽ അവർ കണ്ണുമായി സമ്പർക്കം ഒഴിവാക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ കണ്ണിൻറെ സമ്പർക്കം ഒഴിവാക്കുന്നവനാണ് സത്യസന്ധതയില്ലാത്ത വ്യക്തി എന്ന് സാധാരണയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ശരിയായവയ്ക്ക് ഒരു മാർക്ക് സൂക്ഷിക്കുക നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ 0 നൽകുക മൂന്നാമത്തേത് നോക്കൂ ഒരു വ്യക്തി കൂടുതൽ സ്ഥലം കൈവശപ്പെടുത്തുമ്പോൾ അവൻ കൂടുതൽ അധികാരം ആസ്വദിക്കുന്നു ഉത്തരം ശരിയാണ് കമ്പനിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയെ നോക്കൂ നമുക്ക് സി ഒ എന്ന് പറയാം അദ്ദേഹം തന്റെ ഓഫീസിന് പരമാവധി ഇടം നൽകുന്നു ഒരു ക്യൂബിക്കിളിൽ ഇരിക്കുന്ന ഏറ്റവും താഴ്ന്ന തൊഴിലാളിയെ നോക്കുക ആ തൊഴിലാളിയേക്കാൾ താഴെയുള്ള ഒരാൾ കാവൽക്കാരനെപ്പോലെ അവൻ പുറത്ത് ഇരിക്കുന്നു തുടർന്ന് ഒരു സ്റ്റൂൾ മാത്രം അവന് നൽകിയിരിക്കുന്ന ഇടമാണ് അതിനാൽ പവർ സ്പേസ് അനുസരിച്ച് വ്യക്തിക്ക് നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും ചോദ്യം നമ്പർ നാല് നിങ്ങളിൽ ചിലർക്ക് അത് ശരിയായി ലഭിച്ചിരിക്കില്ല പക്ഷേ അത് കുഴപ്പമില്ല നിങ്ങൾ ഇടപഴകുന്ന മറ്റേ വ്യക്തിയേക്കാൾ താഴെ ഇരിക്കുന്നത് ആധിപത്യത്തെയോ അധികാരത്തെയോ സൂചിപ്പിക്കുന്നു കാരണം സാധാരണയായി ആധിപത്യം പുലർത്തുന്നവരോ അധികാരം കാണിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലായ്പ്പോഴും നിങ്ങളെക്കാൾ ഉയരത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു അവർ നിങ്ങൾക്ക് ആധിപത്യം പുലർത്തുന്ന ഭാവം നൽകാൻ ശ്രമിക്കുന്നു സാധാരണയായി സ്ഥാനത്ത് താഴ്ന്ന സ്ഥാനത്തുള്ള വ്യക്തി അങ്ങനെ വളയുന്നു താഴ്ന്ന് ഇരിക്കുന്നു അതിനാൽ അവൻ പോലും മറ്റേ വ്യക്തിയെ മുകളിൽ ഇരിക്കാൻ അനുവദിക്കുന്നു അതിനാൽ അത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും താഴ്ന്ന ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ശക്തിയുടെ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നു അഞ്ചാമത്തേത് കാലുകൾ ഒരു മേശപ്പുറത്ത് ഇരുന്ന് കൈകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും മുന്നിൽ ആക്രമണോത്സുകതയുടെ ചുവടുകൾ കാണിക്കുന്നു ചില മേലധികാരികൾ അവരുടെ സെക്രട്ടറിമാർക്ക് മുമ്പും അവരുടെ ജീവനക്കാർക്ക് മുമ്പും ചെയ്യുന്നതുപോലെ ഇത് ശരിക്കും വളരെ ആക്രമണാത്മകമാണ് അവർ യഥാർത്ഥ മേലധികാരികളാണെന്ന് യഥാർത്ഥ മേലധികാരികളും തുടർന്ന് ഞാൻ ചിത്രത്തിൽ കാണിച്ചതുപോലെ അവർ വളരെ അക്രമാസക്തമായ രീതിയിൽ ഇരിക്കുന്നു അത് ശരിയാണ് അതിനാൽ നിങ്ങൾ ശരിയായ ഉത്തരങ്ങൾക്ക് ഒരെണ്ണവും തെറ്റായ ഉത്തരത്തിന് പൂജ്യവും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആറാം നമ്പർ ചോദ്യവും ശരിയാണ് കൈകൾ കാലുകൾ അല്ലെങ്കിൽ കണങ്കാലുകൾ കടക്കുന്നത് ഒരു പ്രതിരോധ ആംഗ്യമാണ് അതിനാൽ തുറന്ന കൈപ്പത്തികൾ പോലുള്ള എല്ലാ തുറന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ ക്രോസിംഗുകളും സാധാരണയായി പ്രതിരോധാത്മകമായി കണക്കാക്കപ്പെടുന്നു തുറന്ന കാലുകൾ പോലും മുൻവശത്തുള്ള വ്യക്തിയിലേക്ക് നീണ്ടുനിൽക്കുന്നു അതിനാൽ ഇവയെല്ലാം പ്രതിരോധത്തിന് എതിരായ തുറന്ന ആംഗ്യങ്ങളാണ് മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തപ്പോൾ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുള്ളപ്പോൾ മറ്റേയാൾ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ സ്വയം പ്രതിരോധിക്കുന്നു ഇത് മൃഗങ്ങളുടെ സഹജാവബോധം പക്ഷികളുടെ സഹജാവബോധം പോലെയാണ് നിങ്ങൾ അവയോട് അടുക്കുമ്പോൾ അവർ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കും അതിനാൽ അവർ പ്രതിരോധ ആംഗ്യം ഉപയോഗിക്കും ഏഴാമത്തേത് വീണ്ടും രസകരമാണ് ഉത്തരം ശരിയാണ് നിങ്ങൾ വിരലുകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതുപോലെ തുഴയുന്നു തുടർന്ന് ഉയർന്ന സ്ഥാനം പോലും വിരലുകളും കൈകളും ഉപയോഗിച്ച് തുഴയുന്നത് ആത്മവിശ്വാസം കാണിക്കുന്നു ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ പോക്കറ്റിനുള്ളിൽ കൈകൾ വയ്ക്കാൻ ശ്രമിക്കും അവർ കൈകൾ പിന്നിൽ വയ്ക്കും കൈകൾ വളരെ ഭയപ്പെടും അതിനാൽ അവർ കൈകൾ അമർത്തും അതിനാൽ കൈകൾ അതിനെ സ്വതന്ത്രമായി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റിപ്പിംഗ് സ്ഥാനത്ത് ഒരുമിച്ച് പിടിക്കുകയോ ചെയ്യുന്നതിനുപുറമെ നിരവധി കാര്യങ്ങൾ ചെയ്യും അതിനാൽ അത് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു എട്ടാമത്തേത് ശരിയാണ് ഒരു സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് കുറച്ച് ഗം ചവയ്ക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ അഭിമുഖത്തിന് പോകുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു കപ്പ് ചായ വേണമെന്ന് ചിന്തിക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു സിഗരറ്റ് വലിക്കുന്ന സാഹചര്യത്തിൽ ഉത്കണ്ഠയുടെയോ പരിഭ്രാന്തിയുടെയോ അടയാളമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് ഒരുതരം നിർബന്ധിത ആസക്തിയാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിഭ്രാന്തിയോ ഉത്കണ്ഠയോ മറികടക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ കരുതുന്നു അതിനാൽ നിങ്ങൾ അത് ചെയ്യുക അപ്പോൾ ആളുകൾ അവരുടെ പരിഭ്രാന്തിയെ നിയന്ത്രിക്കാൻ അത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ചെറിയ പാനീയങ്ങൾ കഴിക്കുന്നു അതിനാൽ ഇവയെല്ലാം ഉത്കണ്ഠയുടെയോ പരിഭ്രാന്തിയുടെയോ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഒൻപതാം നമ്പർ ചോദ്യം ഉത്തരം തെറ്റാണ് നിങ്ങളുടെ തല കൈപ്പത്തിയിൽ വയ്ക്കുന്നത് വിഷയത്തിലുള്ള താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഞാൻ നൽകിയ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അവർക്ക് പൂർണ്ണമായും താൽപര്യം നഷ്ടപ്പെട്ടു അവർ പൂർണ്ണമായും വ്യതിചലിച്ചു അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഉറപ്പില്ല അതിനാൽ നിങ്ങളുടെ കൈ കൈപ്പത്തിയിൽ വയ്ക്കുന്നത് താൽപ്പര്യക്കുറവിനെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വിരസത തോന്നുന്നു പകരം അത് വിരസതയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഉത്തരം തെറ്റാണ് പത്താമത്തേത് ഏറ്റവും എളുപ്പമുള്ളതാണ് ഒരുപക്ഷേ എല്ലാ സംസ്കാരത്തിലും എല്ലാ ഭാഷയിലും നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ഇത് നന്നായി ചെയ്ത ഒരു ജോലിയാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു അത് വിജയത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇന്നും നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് എന്നിവയുണ്ട് അഭിനന്ദനങ്ങൾ നിങ്ങൾ ഒരു നല്ല ജോലി ചെയ്തു നന്നായി നിങ്ങൾ അത് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഐക്കൺ തംബ്സ് ഉണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളരെ രസകരമാണ് അതിനാൽ അവർ മുതിർന്നവരേക്കാൾ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് അത് ശരിയാണ് അതിനാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ മാതാപിതാക്കളിൽ പ്രത്യേകിച്ച് അമ്മയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവർ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആകുകയും ചെയ്യുന്നതിനാൽ അവർക്ക് എല്ലായ്പ്പോഴും അമ്മയുടെ ശ്രദ്ധ വേണം അതിനാൽ അമ്മ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അമ്മ ടിവി കാണുകയാണെങ്കിൽ കുഞ്ഞ് അവളുടെ തല കുഞ്ഞിലേക്ക് തള്ളാൻ പോലും ശ്രമിക്കും അതിനാൽ അത് മുഴുവൻ ശ്രദ്ധയും ആഗ്രഹിക്കുന്നു അവർ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് അവർക്ക് മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും നല്ല ആളുകളുടെയും ശരീരഭാഷ മനസ്സിലാക്കാൻ കഴിയും തുടർന്ന് ഉടൻ തന്നെ മോശമായ ആരെങ്കിലും കുട്ടിയെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും അത് തിരഞ്ഞെടുക്കുന്നു കുഞ്ഞ് ഉടൻ കരയാൻ തുടങ്ങും ഊഷ്മളതയിലെ വ്യത്യാസം അവർക്ക് കാണാൻ കഴിയും അതിനാൽ അവർ മുതിർന്നവരേക്കാൾ കൂടുതൽ സെൻസിറ്റീവ് ആണ് ഇപ്പോൾ സാധാരണയായി നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് വാക്കാലുള്ള ആശയവിനിമയത്തേക്കാൾ തീവ്രവും ഫലപ്രദവുമല്ലെന്ന് ചോദ്യം പറയുന്നു ഉത്തരം തെറ്റാണ് ഇത് മറ്റൊരു വഴിയാണ് ഒന്നുകിൽ ഇത് തുല്യ തീവ്രവും ഫലപ്രദവുമാണ് പല കേസുകളിലും ഇത് വാക്കാലുള്ള ആശയവിനിമയത്തേക്കാൾ കൂടുതൽ തീവ്രവും ഫലപ്രദവുമാണ് അതിനാൽ വാക്കാലുള്ളതിനേക്കാൾ നോൺ വെർബൽ വളരെ ഫലപ്രദമാണ് 13 ആരോടെങ്കിലും വാക്കാലുള്ള സംസാരം നിർത്തുമ്പോൾ ആശയവിനിമയം മുഴുവൻ നിർത്തുന്നു ഇപ്പോൾ ഉത്തരം തെറ്റാണ് കാരണം നമ്മൾ ആരോടെങ്കിലും വാക്കാലുള്ള സംസാരം നിർത്തിയെന്ന് കരുതുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുമായി വാക്കേതരമായി ആശയവിനിമയം നടത്താൻ തുടങ്ങുന്നു നമ്മൾ നമ്മുടെ ശരീരഭാഷ കൂടുതൽ ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നത് നിർത്തുന്നു പക്ഷേ പോകുമ്പോൾ ഞങ്ങൾ ഒരേ മുറിയിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ വാതിലിൽ ചവിട്ടുന്നു ഞങ്ങൾ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നു ഞങ്ങൾ വളരെ ഉയർന്ന അളവിൽ മ്യൂസിക് പ്ലെയർ പ്ലേ ചെയ്യുന്നു പിരിമുറുക്കം സൃഷ്ടിക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്യുന്നു ഞങ്ങളുടെ നോൺ വെർബൽ ആശയവിനിമയം ഉപയോഗിക്കുന്ന വ്യക്തിയെ ശല്യപ്പെടുത്തുന്നു എന്നിരുന്നാലും ഞങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കുന്നത് നിർത്തുന്നു ഇപ്പോൾ 14 ൽ സ്വമേധയാ ഉള്ള ശരീരഭാഷ ഒരു വ്യക്തിയുടെ ആന്തരിക ചിന്തയോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു ഉത്തരം തികച്ചും ശരിയാണ് ഇത് ശരീരഭാഷയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗമാണ് വരും പ്രഭാഷണങ്ങളിൽ നമ്മൾ കൂടുതൽ ചെലവഴിക്കും നമസ്തേ പറയുക കൈ കുലുക്കുക തുടങ്ങിയ സ്വമേധയാ ഉള്ള ശരീരഭാഷ അവ ആശയവിനിമയത്തിന്റെ ഔപചാരിക വശം വെളിപ്പെടുത്തുന്നു എന്നാൽ സ്വമേധയാ ഉള്ള ശരീരഭാഷ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചർച്ച ചെയ്യും നിങ്ങളുടെ കൈയുടെ നിമിഷം നിങ്ങളുടെ കാലുകളുടെ നിമിഷം നിങ്ങളുടെ മുഖഭാവങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ അറിവില്ലാതെ വരുന്നു അതിനാൽ അവ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആന്തരിക ചിന്തകളോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു അവസാനത്തേത് ഇത് സമയത്തെക്കുറിച്ചുള്ള ധാരണയെക്കുറിച്ചാണ് ആളുകൾ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ നിലനിർത്തുകയും സമയത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾക്കനുസരിച്ച് സമയപരിധി പാലിക്കുകയും ചെയ്യുന്നു അതെ തികച്ചും ശരിയാണ് നമ്മൾ ഈ മോണോക്രോണിക് പോളിക്രോണിക് സമയ വീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു മോണോക്രോണിക് സമയ വീക്ഷണമുള്ള ഒരാൾ സമയം രേഖീയമാണെന്ന് കരുതുന്നു യൂറോപ്യന്മാരെയും അമേരിക്കക്കാരെയും പോലെ സമയവും ബജറ്റ് ചെയ്തിരിക്കുന്നു ഇത് പോളിക്രോണിക് ആണെന്ന് വിശ്വസിക്കുന്നവർ സമയം നിങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ കരുതുന്നു തുടർന്ന് കാര്യങ്ങൾ അനന്തമായി മാറ്റിവയ്ക്കാം അവർ ആസൂത്രണം ചെയ്യുന്നില്ല അവർ കാര്യങ്ങൾ വരാൻ അനുവദിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും തുടർന്ന് ഇപ്പോൾ സംസ്കാരത്തെയും നിങ്ങൾ വികസിപ്പിച്ചെടുത്ത മാനസികാവസ്ഥയെയും ആശ്രയിച്ച് ആളുകൾക്ക് യഥാർത്ഥത്തിൽ സമയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്കോർ വിശകലനത്തിന്റെ നിഗമനത്തിൽ മൊത്തം പരിശോധിക്കുക തെറ്റായ ഉത്തരങ്ങൾക്ക് 0 നൽകുക മൊത്തം വരെ കൂട്ടുക നിങ്ങൾ 13 മുതൽ 15 വരെ സ്കോർ നേടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളുടെ കാര്യത്തിലും ശരീരഭാഷയുടെ കാര്യത്തിലും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇതിനകം തന്നെ മികച്ച നിലയിലാണ് നിങ്ങൾ 10 മുതൽ 12 വരെ ആണെങ്കിൽ നിങ്ങൾ വളരെ നല്ലവനാണ് 7 മുതൽ 9 വരെ നല്ലതാണ് 4 മുതൽ 6 വരെ ശരാശരി ആണ് ഇപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ നോൺ വെർബൽ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് മികച്ച തലത്തിലുള്ളവർ അത് ചെയ്യേണ്ടതില്ല എന്നല്ല കാരണം നോൺ വെർബൽ ആശയവിനിമയത്തിന്റെയും ശരീരഭാഷയുടെയും കാര്യത്തിൽ വളരെയധികം മെച്ചപ്പെടുത്താനുണ്ട് അവർക്ക് മെച്ചപ്പെടുത്താൻ കഴിയും അവർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാൽ 4 മുതൽ 6 വരെയും അതിൽ താഴെയും 2 മുതൽ 4 വരെയും അല്ലെങ്കിൽ 0 മുതൽ 2 വരെയും മോശമായവർ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾ പെരുമാറുന്നത് ഒരു രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പെരുമാറുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകാം ശരിയല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ചില ശരീരഭാഷയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതോ ആയതിനാൽ നിങ്ങളുടെ ശരീരഭാഷയെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ആശയവിനിമയം നടത്തുന്നു അതിനാൽ അത് 6 ന് താഴെയായിരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് അതാണ് പക്ഷേ നിരാശപ്പെടരുത് അതിനാൽ നിങ്ങളുടെ അറിവ് മുൻകൂട്ടി പരിശോധിക്കാൻ എനിക്ക് ഒരു പരിശോധന കൂടി ഉണ്ടാകും തുടർന്ന് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം വളരെ രസകരമായ ചില ചിത്രീകരണങ്ങളുമായി ഞങ്ങൾ സിദ്ധാന്ത ഭാഗത്തേക്ക് പോകും പക്ഷേ അത് ആത്മവിശ്വാസം നേടാനും ശരീരഭാഷയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാനും സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ ശരീരഭാഷയുടെ വീക്ഷണകോണിൽ നിന്ന് ആളുകളെ നോക്കാൻ ആരംഭിക്കുക ഇത് നിങ്ങളുടെ ആശയവിനിമയ വൈദഗ്ദ്ധ്യം വർദ്ധിപ്പിക്കും ഒരിക്കൽക്കൂടി നന്ദി നന്ദി